ഹാപ്റ്റിക്സ് II രണ്ടാമത്തെ ആഴ്ച്ചയിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് ഹാപ്റ്റിക്സ് എന്താണെന്നും തൊഴിലിടങ്ങളിൽ അവയുടെ പ്രാധാന്യം എന്താണെന്നും നാം കാണുകയുണ്ടായി വിവിധ തരം ഹസ്തദാനം വിവിധ തരം അഭിവാദ്യങ്ങൾ അവയുടെ സാംസ്കാരിക ഭേദങ്ങൾ എന്നിവയെ കുറിച്ചു നാം പഠിച്ചു ഇന്നത്തെ ഭാഗത്ത് തൊഴിൽ ഇടങ്ങളിൽ ഉള്ള ഹാപ്റ്റിക്സിന്റേ പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉചിതവും അംഗീകൃതവുമായ ലിംഗബന്ധം സ്ഥാപിക്കുന്നതിൽ ഹാപ്റ്റിക്സിന്റെ പ്രാധാന്യം എന്നിവയും നമ്മൾ പരിശോധിക്കുന്നതാണ് നാം മറ്റുള്ളവരെ സ്പർശിക്കുമ്പോൾ അതിൽ സാങ്കേതികപരമായി യാതൊരു തടസ്സവും നേരിടുന്നില്ല നാ ആ വ്യക്തിയുടെ അടുത്തേക്ക് നീങ്ങുകയും അവരെ സ്പർശിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ സാമീപ്യം ഒരു പക്ഷെ തൊഴിലിടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നിരുന്നാലും തൊഴിൽ സ്ഥലങ്ങളിൽ സ്പർശനം എന്നത് എപ്പോഴും ഒരു ആവശ്യത്തിനു വേണ്ടിയോ നിത്യേനയുള്ള തൊഴിൽ സംബന്ധമായ സമ്പർക്കമായോ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പശ്ചാത്തലം സ്പർശനത്തെ ഭയപ്പെടുത്തുന്ന ഒന്നല്ലാതാക്കി തീർക്കുകയും പരസ്പര ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു സമൂഹം അംഗീകരിച്ച സ്പർശന രീതികൾ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ സഹായിക്കുന്നു നമ്മുടെ ശങ്കകളെ മറികടക്കാനും അതേ സമയം നാം ഒരു സംഘത്തിന്റെ അംഗമാണെന്നും ആദരിക്കപ്പെടുന്നവർ ആണെന്നും തിരിച്ചറിയുവാൻ സഹായിക്കുന്നു ഒരു പക്ഷെ കയ്യിൽ ഒരു സ്പർശനം എന്നത് നമ്മുടെ പരിശ്രമം ശരിയായ ദിശയിൽ പോകുന്നു എന്നതിനെ കാണിക്കുന്നു എന്നാലും രണ്ട് പേർക്കിടയിൽ ഉള്ള സ്പർശനത്തെ കുറിച്ച് പറയുമ്പോൾ അതും വ്യത്യസ്ത സംസ്കാരത്തെ കുറിച്ചും രണ്ട് ലിംഗത്തെ കുറിച്ചും ആകുമ്പോൾ സ്ഥാപിതമായതും അല്ലാത്തതും ആയ പല അതിർവരമ്പുകൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊരു സൌഹൃദത്തിലും ജോലി സ്ഥാപനങ്ങളിലും അമിതമായ സ്പർശനം മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുകയും സ്പർശനത്തിന്റെ അഭാവം അകലത്തെയും കാണിക്കുവാൻ ഇടയാകുന്നു മനുഷ്യ സ്പർശനം അനുഭവത്തെ ബലപ്പെടുത്തുന്നു തികച്ചും തൊഴിൽ പരമായ സാഹചര്യത്തിൽ മറ്റൊരാൾ നൽകുന്ന സ്പർശനം നമുക്കുള്ളിൽ പുതിയ ഒരു ഉണർവ്വ് നൽകുന്നു എങ്കിലും കഴിഞ്ഞ ഭാഗത്ത് നാം ചർച്ച ചെയ്തത് പോലെ സംസ്കാരം തൊഴിൽ സ്ഥാപനത്തിലെ രീതികൾ എന്നിവ പ്രധാനമാണ് ഈ വ്യത്യാസങ്ങൾ സമ്പർക്കം പുലർത്തുന്ന ആൾ തിരിച്ചറയേണ്ടതും ആണ് നാം രണ്ട് തരം സംസ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി കോൺടാക്ട് കൾചറും നിന്നും ഉള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഉള്ള സ്പർശം ഗന്ധം എന്നിങ്ങനെയുള്ള ഇന്ദ്രിയാനുഭൂതികൾ ആശ്വാസപ്രദമാണ് നോൺ കോൺടാക്ട് സംസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് വടക്കൻ യൂറോപ്പ് കൂടാതെ ഒട്ടനേകം ഏഷ്യൻ രാജ്യങ്ങളിൽ തമ്മിൽ അകലം പാലിച്ചുകൊണ്ട് ദൃശ്യാടിസ്ഥാനത്തിലുള്ള ആശയ വിനിമയത്തിന് പ്രാധാന്യം നൽകുന്നു ഈ നോൺ കോൺടാക്ട് സംസ്കാരത്തിൽ സ്പർശിക്കാതെ തന്നെ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുവാനുള്ള രീതികൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരം വ്യത്യാസങ്ങൾ മറ്റ് മനുഷ്യരെ സ്പർശിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവ്യക്തമായ ഒന്നാണെന്ന് നമ്മെ ജാഗരൂകരാക്കുന്നു ഇത്തരം വ്യാഖ്യാനങ്ങൾ സാന്ദർഭോജിതമാണ് അത് വ്യക്തിഗതമോ സാംസ്കാരികമോ സ്ഥാപന സംബന്ധിയോ ആകാം ഉദാഹരണത്തിനു നിരവധി സ്ഥാപനങ്ങൾ പിന്തുടരുന്നത് ഒരു സ്പർശനമുക്ത ശൈലി ആണ് അതുകൊണ്ട് അവർ പരസ്പരം സ്പർശിക്കരുത് എന്നും ഒരു വിനീതമായ ഹസ്തദാനം തന്നെ ധാരാളമാണ് എന്നും കണക്കാക്കപ്പെടുന്നു വ്യക്തമായ ഒരു സ്പർശനം ആളുകൾക്കിടയിൽ ബന്ധത്തെ ബലപ്പെടുത്തുന്നു അതേ സമയം ഇത് തെറ്റായി ഉപയോഗിച്ചാൽ വിശ്വാസ്യത തകരുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരം സംസ്കാരം വ്യത്യാസങ്ങളും സാഹചര്യങ്ങളും ആണ് ഒരാൾ നമ്മേ തൊടുമ്പൊഴുള്ള നമ്മുടെ പ്രതികരണവും നമ്മുടെ സ്പർശനം മറ്റൊരാൾക്ക് തെറ്റായി തോന്നിയോ ഇല്ലയോ എന്നുമൊക്കെ തീരുമാനിക്കുന്നത് ഇത് ഒരു വ്യക്തിയുടെ മനസ്സ് സ്പർശനം നടക്കുമ്പോൾ ഉള്ള സാഹചര്യം തൊഴിലാളിയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഫ്രഞ്ച്കാരനും ഇറ്റലിക്കാരനും സ്പർശം ഒരു പ്രശ്നം ആയിരിക്കില്ല പക്ഷേ ഒരു ബ്രിട്ടിഷ്കാരന് പൊതു സ്ഥലത്ത് വെച്ച് ഒരാൾ സ്പർശിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കും കായിക മത്സരങ്ങളിൽ അതും വലിയ കാണികളുടെ മുന്നിൽ അല്ലാത്ത സാഹചര്യത്തിൽ അവർ സ്പർശനം ഒഴിവാക്കുന്നു ഇന്ത്യ ടർക്കി ഇറ്റലി ഗ്രീസ് സ്പെയിൻ പശ്ചിമേഷ്യൻ പ്രദേശങ്ങൾ റഷ്യ എന്നിവിടങ്ങളിൽ സ്പർശനം അംഗീകരിക്കപ്പെട്ടവയാണ് റഷ്യക്കാർക്ക് സ്പർശനം തികച്ചും സ്വാഭാവികമായ ഒന്നാണെങ്കിലും കിഴക്കൻ രാജ്യങ്ങളിലെ ആളുകളുടെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ് ജർമനി ജപ്പാൻ ഇംഗ്ലണ്ട് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസീലണ്ട് എസ്റ്റോണിയ പോർച്ചുഗൽ വടക്കൻ യൂറോപ്പ് സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിലെ സംസ്കാരം അനുസരിച്ച് സ്പർശനം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റു പല സംസ്കാരങ്ങളിലും പാശ്ചാത്യ സംസ്കാരത്തിലെ വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റം കൊണ്ട് സ്പർശനത്തേ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറുന്നുണ്ട് കോൺടാക്ട് നോൺ കോൺടാക്ട് സംസ്കാരത്തെ കുറിച്ചുള്ള അറിവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഴക്കൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് പാശ്ചാത്യ നാടുകളിൽ സ്പർശനത്തിന്റെ തോത് കുറവാണ് പൊതു സ്ഥലങ്ങളിൽ വിരളമായതിനാൽ ഇത്തരം സ്പർശനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ പ്രാധാന്യത്തെ ഉയർത്തുന്നു ഒരു നോൺ കോൺടാക്ട് സംസ്കാരത്തിൽ ഒരു മേലധികാരി തൊഴിലാളിയുടെ തോളിൽ തട്ടുകയാണെങ്കിൽ അത് ഒരു പ്രചോദനവും എന്നും ഓർമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ആയി മാറുന്നു എങ്കിലും വളരെ വിസ്തൃതമായ ഈ സാംസ്കാരിക തലങ്ങളിൽ വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് യൂറോപ്പിന്റെ ഉദാഹരണം ഇവിടെ എടുക്കാവുന്നതാണ് യൂറോപ്യൻ സംസ്കാരത്തിലും ഒട്ടനേകം അന്തരങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്പർശനത്തേ ഇഷ്ടപ്പെടാത്ത ബ്രിട്ടീഷ്കാരുടെ സ്ഥിതിയെ നാം കണ്ടതാണ് ബ്രിട്ടീഷ് തൊഴിൽ രംഗത്ത് വളരെ മിതമായ സ്പർശനം അനുവദനീയമാണ് ബ്രിട്ടീഷ് സമൂഹത്തിൽ കായിക വേളകളിൽ വിജയാഘോഷത്തിൽ തുടങ്ങിയ സാഹചര്യത്തിൽ കായിക താരങ്ങൾക്ക് ഇടയിൽ സ്പർശനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും വസ്ത്രധാരണ മുറിയിൽ ഇത് ബാധകമല്ല ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ ന്യൂസിലാണ്ട് എന്നിവിടങ്ങളിലെ കായിക താരങ്ങൾക്ക് ഇടയിൽ ഉള്ള ഊഷ്മളമായ ആലിംഗനം മറ്റ് ദക്ഷിണ അമേരിക്കൻ മറ്റ് കോണ്ടിനെന്റൽ രാജ്യങ്ങൾ എന്നിവയിലെ കായിക താരങ്ങളിൽ നിന്നും പകർത്തിയതാണ് എന്ന് അല്ലൻ പീസ് അഭിപ്രായപ്പെടുന്നു ഈ രാജ്യങ്ങളിലെ താരങ്ങൾ ഓരോ ഗോൾ നേടിയ ശേഷവും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു അവരുടെ ഇടപെടൽ വസ്ത്ര ധാരണ മുറിയിലും തുടരുന്നു ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ അനുവദനീയമായ പെരുമാറ്റത്തെ കുറിച്ച് നാം പറയുകയുണ്ടായി അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ പരസ്പരം ആലിംഗനം ചെയ്യുകയും കയ്യിൽ പിടിക്കുകയും സുഹൃത്തിന്റെ തോളത്ത് കൈയിടുകയുമെല്ലാം ചെയ്യാറുണ്ട് സ്പെയിനിൽ ഇതുപോലെ തന്നെ പൂർണ്ണമായും ഔദ്യോഗികമല്ലാത്ത ചർച്ചകൾ നടത്തുമ്പോൾ കയ്യിൽ പിടിക്കുകയും തോളിൽ കയ്യിടുകയും ചെയ്യാറുണ്ട് ഇത് പോലെ തന്നെ പശ്ചിമേഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ദക്ഷിണ യൂറോപ്പ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും സ്പർശനം തികച്ചും അനുവദനീയമാണ് മിശ്രസംസ്കാര സാഹചര്യത്തിൽ ഉള്ളവർക്ക് ഇത് സംശയം ജനിപ്പിച്ചേക്കാം ഉദാഹരണത്തിനു ഇത്തരം വ്യത്യാസത്തെ കുറിച്ച് ബോധവാൻ അല്ലാത്ത ഇംഗ്ലീഷുകാരൻ ആയ ഒരാൾ ലാറ്റിൻ അമേരിക്കൻ വ്യക്തിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്പർശനത്തിൽ അതൃപ്തി ഉണ്ടായേക്കാം അയാൾക്ക് ഇത് തികച്ചും അസ്വസ്ഥതയും അപ്രിയവും ചിലപ്പോൾ ഭീഷണിയായി പോലും തോന്നാം അത് പോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ വ്യക്തിക്ക് സ്പർശനത്തിന്റെ അഭാവം ഒരു പക്ഷെ സൌഹൃദപരമല്ലാത്തതും തണുത്തതും അതൃപ്തം ആയ ഒരു മനോഭാവമായും തോന്നിയേക്കാം സ്പർശനത്തിന്റ സാന്നിധ്യം അഭാവം എന്നിവ സമൂഹത്തിന്റെ സാമൂഹികവും സാംസകാരികവുമായ വികസനത്തെ ആശ്രയിച്ച് മാറുന്നു വടക്കൻ യൂറോപ്പ് പൌരസ്ത്യ ദേശം എന്നിവിടങ്ങളിൽ അറിയാതെ തമ്മിൽ സ്പർശിച്ചാൽ ക്ഷമാപണം നടത്തേണ്ടതുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം മനുഷ്യ സ്പർശം എന്നത് രാജ്യാന്തരമായി എങ്ങിനെയാണ് സംശയം ജനിപ്പിക്കുന്നത് എന്നത് അമേരിക്കയുടെ പ്രഥമ വനിതയായ മിഷേൽ ഒബാമ രാജകീയ പെരുമാറ്റചട്ടം ലംഘിച്ച് ബ്രിട്ടീഷ് രാജ്ഞിയെ ആലിംഗനം ചെയ്തു എന്ന 2009ലെ തലക്കെട്ട് ആയി മാറിയ രസകരമായ സംഭവത്തിലൂടെ മനസ്സിലാക്കാം ബ്രിട്ടീഷ് പെരുമാറ്റ രീതിക്കും രാജകീയ പെരുമാറ്റചട്ടത്തിനും എതിരായ ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തലക്കെട്ടായി മാറി അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സ്പർശനത്തിന്റെ ദൈർഘ്യം മാത്രമല്ല സ്പർശനത്തിന്റ സ്ഥാനം സ്പർശനം നൽകുന്ന ശരീര ഭാഗം എന്നിവയും പ്രാധനമാണ് എന്നതാണ് ഉദാഹരണത്തിന് അറബി നാടുകളിൽ പുരുഷന്മാർ തമ്മിൽ ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്നു എങ്കിലും എതിർ ലിംഗത്തിൽ പെട്ടൊരാളുമായി സ്പർശനം നിഷിദ്ധം ആണ് തായ്ലൻഡ് ലാവോസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മറ്റൊരാളുടെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ തലയിൽ തൊടുന്നത് അശുഭം ആയി കണക്കാക്കുന്നു സൌത്ത് കൊറിയയിൽ മുതിർന്നവർക്ക് തിരക്കേറിയ സ്ഥലങ്ങളിൽകൂടി കടക്കുമ്പോൾ ചെറിയ കുട്ടികളെ തൊടാൻ കഴിയും എങ്കിലും പ്രായത്തിൽ ചെറിയ ആൾ മുതിർന്ന ആളെ അപ്രകാരം സ്പർശിക്കാൻ പാടില്ല ഇത്തരം സാംസ്കാരിക വ്യത്യാസങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലും കാണാം അമേരിക്കൻ പ്രഥമ വനിതാ മിഷേൽ ഒബാമ ബ്രിട്ടീഷ് രാജ്ഞിയെ ആലിംഗനം ചെയ്ത് വാർത്ത നാം കണ്ടതാണ് ഇതുപോലെ ഉള്ള മറ്റൊരു സംഭവം ആണ് ഈ ചിത്രത്തിൽ കാണുന്നത് പാകിസ്താനി പ്രസിഡന്റ് ആസിഫ് അലി സർദാരി കൈയിൽ പിടിച്ചിരിക്കുന്നു ഇത് പരസ്പര ബഹുമാന സൂചകമായി കണക്കാക്കുന്നു കാരണം ഇത് അവർക്കിടയിൽ ഒരു പൊതുവായ സാംസ്കാരിക വിശ്വാസം ആണ് എന്നാൽ അമേരിക്കൻ ബ്രിട്ടീഷ് സമൂഹത്തിൽ ഇതിന് ഇപ്രകാരം ഉള്ള പ്രതികരണം പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്നു വിവിധ സമൂഹത്തിലെ പ്രാദേശിക ഇടം നേത്ര സമ്പർക്കം സ്പർശനത്തിന്റെ ദൈർഘ്യം കൂടാതെ അധിക്ഷേപകരമായ ആംഗ്യങ്ങൾ എന്നിവയിലാണ് അത് നിലനിൽക്കുന്നത് ഒട്ടുമിക്ക പാശ്ചാത്യ നാടുകളിലും ഹസ്തദാനം അനുവദനീയമായ ഒരു സ്പർശന രീതിയാണ് എങ്കിലും ചില സമൂഹത്തിൽ ഇതും ഒഴിവാക്കപ്പെടുന്നു ജാപ്പനീസ് ചൈനീസ് സമൂഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് രസകരമാണ് ആശയ വിനിമയത്തിന്റേ വാക്യേതര തലങ്ങളെ കുറിച്ച് പഠിക്കുന്ന എഴുത്തുകാർ ഇത്തരം സാമൂഹിക നിയമങ്ങൾ പരാമർശിക്കുന്നുണ്ട് ജപ്പാൻകാർ പൊതുവായി അപരിചിതരുടെ സ്പർശനത്തിന് എതിരാണ് അത്തരം സ്പർശനം തികച്ചും മര്യാദ ഇല്ലാത്ത പെരുമാറ്റം ആയി കണക്കാക്കുന്നു അതിനാൽ ചുംബനം ആലിംഗനം എന്തിന് അടുപ്പത്തോട് കൂടിയ ഒരു ഹസ്തദാനം പോലും അവർ ഒഴിവാക്കുന്നു അവരുടെ സംസ്കാരം അനുവദിക്കുന്ന പ്രകാരം അവർ പരസ്പരം തല കുനിച്ച് വണങ്ങുന്നു ഉന്നത സ്ഥിതി ഉളളവർ കുറച്ച് കുനിയുമ്പോൾ താഴെക്കിടയിൽ ഉളളവർ കൂടുതൽ തല കുനിച്ച് വണങ്ങുന്നു ഇതേ മാനദണ്ഡങ്ങൾ ചൈനീസ് സംസ്കാരത്തിലും കാണാൻ കഴിയും പരമ്പരാഗതമായ ചൈനീസ് രീതികളിൽ എങ്കിലും അപരിചിതരുടെ സ്പർശനം അവർ ഇഷ്ടപ്പെടുന്നില്ല പരമ്പരാഗത ചൈനീസ് രീതിയിൽ പരിചയപ്പെടുത്തുമ്പോൾ തല കുലുക്കി വന്ദിക്കുകയാണ് ചെയ്യുക ചൈനീസ് സമൂഹത്തിൽ സ്പർശനം സ്വാഗതാർഹം അല്ല എങ്കിലും ചൈനക്കാർ പാശ്ചാത്യരുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യാപാര മേഖലകളിലും തൊഴിലിടങ്ങളിലും ഒരു വിധം ശരീര ഭാഷാ പെരുമാറ്റ ചട്ടത്തേ മുൻനിർത്തി അടുപ്പവും സാമീപ്യവും കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ നിയമങ്ങൾ കാണിക്കുന്നത് ചൈനീസ് ജപ്പനീസ് സമൂഹങ്ങളുടെ പരമ്പരാഗത രീതിയാണ് ജോലി സ്ഥലങ്ങളിൽ ഉള്ള സ്പർശനത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് ഈ ദൃശ്യം കാണിക്കുന്നു ഹസ്തദാനത്തേ കുറിച്ചുള്ള ഒരു പഠനം പറയുന്നത് തമ്മിൽ കൈ കൊടുക്കുന്ന ആളുകളെ ഓർമ്മിക്കുവാൻ ഉള്ള സാധ്യത ഇരട്ടിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ വ്യക്തിഗത അംഗീകാരത്തിന് ഉതകുന്ന എളുപ്പ വഴി ആണ് " ബിസിനസ് ടച്ച്" ഈ അവസരത്തിൽ സൈമൺ ജെ ബ്രണ്ണർ ഒരു സംഭവമാണ് ഈ മത്സരം തൽസമയം സംപ്രേഷണം ചെയ്തിരുന്നു കളിക്കാർ എല്ലാവരും ആചാരപരമായി ബാസ്ക്കറ്റ്ബോൾ നെറ്റിൽ നിന്നും ഓരോ കഷ്ണം അടർത്തി എടുക്കുകയും തങ്ങളുടെ വിജയ ചിഹ്നമായി അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തതിന് കാണികൾ സാക്ഷിയായി സൈമൺ ബ്രണ്ണറിന്റെ കാഴ്ചപ്പാടിൽ മറ്റൊരു വ്യക്തിയെ സ്പർശിക്കുന്നത് മാത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല ഹാപ്റ്റിക് അനുഭവം പക്ഷേ ഒന്നുകൂടി സമഗ്രമാക്കിയാൽ നാം സ്പർശിക്കുന്ന വസ്തുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ അചേതന വസ്തുക്കളുമായുള്ള നമ്മുടെ വ്യവഹാരങ്ങളിൽ സംവേദനം ചെയ്യുന്ന സ്പര്ശത്തിന്റെ അവബോധവും ഇതിൽ പെടും "പരമ്പരാഗതമായ ഈ ആചാരത്തിന്റെ പ്രാധാന്യം എന്നത് ഹാപ്റ്റിക് അനുഭവത്തിന്റെ ഭാവനാത്മകതയും ദൃശ്യമായ സ്പർശന രീതിയുടെ സൂചക ശക്തിയുമാണ്" എന്നും അവർ അഭിപ്രായപ്പെടുന്നു ദൈനംദിന പെരുമാറ്റത്തിൽ സ്പർശനത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് അവർ ചുരുക്കി വിവരിച്ചിട്ടുണ്ട് ഹാപ്റ്റിക് വസ്തുതകളിൽ ഉള്ള നമ്മുടെ ആശ്രയത്തെ കുറിച്ചും നമ്മുടെ പദസഞ്ചയത്തിലേക്കും ഭാഷാ പ്രയോഗത്തിന്റെ വിവിധ തലങ്ങളിലേക്കും അവ ഇഴുകിച്ചേർന്നതിനെ കുറിച്ചും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്പർശനത്തേ കുറിച്ച് ഇത്രയധികം ശൈലികൾ നിലവിൽ ഉണ്ട് എന്നതും ശ്രദ്ധയർഹിക്കുന്ന കാര്യം ആണ് ഉദാഹരണത്തിന് ഒരു ആശയത്തെ മുറുകെ പിടിക്കുക കൈകാര്യം ചെയ്യുക കൈ കടത്തുക തൊട്ടറിയുക ഒരു കൈ നോക്കുക സൈമൺ ബ്രണ്ണറിന്റെ അഭിപ്രായത്തിൽ ഇത്തരം സ്പർശ രൂപകങ്ങൾ ഒരു പരിധി വരെ സത്യത്തെയും കാഴ്ചപ്പാടുകളുടെ വ്യക്തതയും കാണിക്കുന്നു നമ്മൾ കേൾക്കുന്നത് എല്ലാം വിശ്വസിക്കണം എന്നില്ല എന്നാല് സ്പർശിച്ചറിഞ്ഞ് പഠിക്കുക എന്നതാണ് എല്ലാ പാഠങ്ങളുടെയും ആധാരം മറ്റുള്ളവരിൽ നിന്നും കേട്ടത്തിനേക്കൾ അധികമായി സ്വയം തൊട്ടറിഞ്ഞ കാര്യങ്ങളെ നാം വിശ്വസിക്കുന്നു ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ദൈനം ദിന ജീവിതത്തിലെ സ്പർശനമായി ബന്ധപ്പെട്ട ശൈലികൾ നിലനിൽക്കുന്നു ഏറ്റവും നല്ല ഉദാഹരണം വിവിധ ക്ലേശകരമായ അവസ്ഥകളോടുള്ള നമ്മുടെ പ്രതികരണം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പിരിമുറുക്കം ഉള്ള അവസരങ്ങളിൽ നമ്മൾ കൈകൾ മുറുകെ ഞെരുക്കുകയും പേടി കൊണ്ട് അടുത്തിരിക്കുന്ന വസ്തുക്കളെ മടക്കുകയോ ചെയ്യുന്നു വിരൽതുമ്പുകളുടെ ഭാഷയെ നോക്കിയ ശേഷം ഹാപ്റ്റിക് സ്വഭാവത്തിന്റെ തലങ്ങളെ കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം അനുഭവങ്ങളുടെ ലോകത്ത് ഹാപ്റ്റിക് സൂചകങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന അർഥങ്ങൾ ഉണ്ട് തൊഴിൽ ഇടങ്ങളിലും ഇത് പ്രധാനമാണ് എങ്കിലും ഇതിനിടയിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകണം കാരണം മറ്റുള്ളവരെ സ്പർശിക്കുന്നതിന് മുൻപും മറ്റുള്ളവരുടെ സ്പർശനത്തെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പും ചില ചട്ടങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട് സ്പർശനത്തേ കുറിച്ചും വിവിധ സംസ്കാരങ്ങളിൽ അവ വ്യത്യസ്തമാകുന്നത് എങ്ങനെ എന്നും നാം കണ്ടു കഴിഞ്ഞു യുഎസ്എ യിലും വടക്കൻ യൂറോപ്പിലും സ്പർശനം എന്നത് ആളുകളുടെ പദവിയുമായും അധികരക്രമം ആയും ബന്ധപ്പെട്ടിരിക്കുന്നു അന്തസ്സിനും പദവിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു മുതിർന്ന ആൾക്ക് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ പ്രായത്തിൽ ചെറുപ്പകാരൻ ആയ ഒരാളെ തൊടുന്നതിൽ കുഴപ്പമില്ല എന്നാല് മറിച്ച് അന്തസ്സിലോ പ്രായത്തിലോ കുറഞ്ഞ ഒരാൾ ഇത്തരം സ്പർശനം തുടങ്ങി വയ്ക്കില്ല അതുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് തൊഴിലാളിയെ സ്പർശിച്ചേക്കാം എന്നാല് തൊഴിലാളികൾ പ്രസിഡന്റിനെ തൊടുവൻ പാടില്ല സമന്മാർ തമ്മിൽ തമ്മിൽ സമൂഹത്തിലെ അംഗീകൃത വ്യവസ്ഥ അനുസരിച്ച് സ്പർശിക്കാൻ അനുവദിക്കപ്പെടുന്നു വിവിധ സംസ്കാരത്തിലും സംഘടനകളിലും നില നിൽക്കുന്ന വ്യത്യാസത്തെ കുറിച്ച് നാം കണ്ടതാണ് ഹാപ്റ്റിക്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിവിധ ലിംഗത്തേ സംബന്ധിച്ചാണ് 2012 ഇൽ പ്രസിദ്ധീകരിച്ച " ജെൻഡർ പാറ്റേൺ ഇൻ ടച്ചിങ് ബേഹവിയർ" ഒരു രചനയെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രെണ്ട മേജറുടെ കണ്ടെത്തലുകൾ ഇന്നും പ്രസക്തമാണ് സ്പർശത്തിലൂടെ ഉള്ള ആശയ വിനിമയത്തെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും ലിംഗ ഭേദത്തെ കുറിച്ച് ഉരുത്തിരിഞ്ഞു വന്ന സുസ്ഥിരമായ ചില മാതൃകകൾ ഉണ്ട് അവർ അഭിപ്രായപ്പെടുന്നത് കുട്ടിക്കാലത്ത് പെൺകുട്ടികൾ ആണ് ആൺകുട്ടികളേക്കാൾ കൂടുതൽ സ്പർശനം അനുഭവിക്കുന്നത് കൂടാതെ സമൂഹത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ആദ്യ സ്പർശനം നടത്തുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർ ആയിരിക്കും സ്പർശന സ്വഭാവത്തിൽ ഉള്ള ലിംഗ ഭേദം എന്നത് ലിംഗത്തെ അനുസരിച്ച് നിശ്ചയിക്കപ്പട്ട ജോലിയെ പറ്റി സമൂഹത്തിൽ കെട്ടിച്ചമച്ചിരിക്കുന്ന ചില സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരം സങ്കല്പങ്ങളും കർത്തവ്യവും പറയുന്നത് സ്ത്രീകൾ അധീനരും വികാരങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരും ആശ്രയിച്ച് കഴിയേണ്ടവരും ആണെന്നാണ് എന്നാല് പുരുഷന്മാർ ഉത്സാഹമുള്ളവരും സ്വതന്ത്രരും നിർവ്വികാര ജീവികളും ദൈനംദിന ജീവിതത്തിൽ പ്രകോപിതരാകാൻ അനുവദിക്കപ്പെട്ടവരുമാണ് ഇത്തരം സങ്കല്പങ്ങളെ മുറുകെ പിടിക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ട് പരസ്പരം ഇത്തരം സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി അവർ തമ്മിൽ പെരുമാറുന്നു നമ്മുടെ സ്വഭാവത്തെ ഇത്തരം സങ്കല്പങ്ങൾ നിയന്ത്രിച്ച് തുടങ്ങുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുക മാത്രമല്ല മറിച്ച് മറ്റുള്ളവരുടെ നല്ല ഉദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള സന്നദ്ധത നഷ്ടമാക്കുകകൂടി ചെയ്യുന്നു അതുകൊണ്ട് ഇത് സ്വന്തം പ്രവർത്തനത്തെ മാത്രമല്ല ഞെരുക്കുന്നത് മറിച്ച് മറ്റൊരു ലിംഗത്തിൽ പെട്ടയാൾ എന്ന് കരുതിക്കൊണ്ട് കൂട്ടത്തിൽ പെട്ട അംഗങ്ങളുടെ പ്രവർത്തനത്തെ വില കുറച്ച് കാണുവാനും ഇത് ഇടവരുത്തും സാമൂഹ്യ സങ്കൽപ്പങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ സന്നദ്ധമായി പ്രവർത്തിക്കുന്നവരും സ്ത്രീകൾ പ്രതിപ്രവർത്തന സ്വഭാവം ഉള്ളവരുമാണ് ഈ ഭാഗിക്കൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള മറ്റ് പെരുമാറ്റത്തെ പോലെ തന്നെയാണ് ഉദാഹരണത്തിന് "ഏജൻസിയും കമ്യുനിയനും" തുടങ്ങിയ എല്ലാ ദ്വായങ്ങളിലും പുരുഷൻ കർമ്മോദ്യുക്തനും സ്ത്രീ അനുത്സുകയും ആണ് അതുകൊണ്ട് സ്പർശനത്തിന്റെ കാര്യത്തിലുള്ള സങ്കല്പങ്ങൾ പദവിയിൽ ഇരിക്കുന്ന സ്ത്രീയെ പ്രശ്നത്തിൽ ആക്കുന്നു സ്ത്രീകൾ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലം ആയിട്ടില്ല ആയതിനാൽ അവരുടെ ശരീര ഭാഷ എങ്ങനെ ആയിരിക്കണമെന്ന് കാണിക്കുന്ന മാതൃകകൾ ലഭ്യമല്ല അതുകൊണ്ട് തന്റെ തൊഴിലാളി ആയ ഒരു പുരുഷനെ സ്പർശിക്കുന്നത് തന്റെ പദവിയെ കാണിക്കുന്നതിന് പകരം ബലഹീനതയും ശൃംഗാര മനോഭാവവും ആയി തെറ്റിധരിക്കപ്പെടുമോ എന്നുമുള്ള കാര്യങ്ങൾ അനിശ്ചിതമാണ് ഒരു സ്പർശനം ഔചിത്യപൂർണമാണോ അല്ലയോ എന്ന് ആ ദൃശ്യത്തിൽ കാണിക്കുന്നു കൂടെക്കൂടെയുള്ള സ്പർശനത്തിലൂടെ ആശയ വിനിമയത്തിന്റേ പ്രഭാവം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക തൊഴിൽ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കേണ്ട പെരുമാറ്റ ചട്ടത്തിന്റെ ചില കാര്യങ്ങളിൽ മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് സ്പർശനം എന്നത് സൂക്ഷ്മവും ദീർഘം അല്ലാത്തതും എന്നാൽ കൃത്യമായ ഒരു വാക്യേതര സൂചന നൽകുവാൻ ഉതകുന്ന തരത്തിൽ ദീർഘം ആയതും കൈ തോള് പുറം എന്നിവിടങ്ങളിൽ മാത്രമായി ചുരുങ്ങിയതും ആകണം നഗ്നമായ തോളിലും സ്ത്രീകളുടെ പുറം ഇറങ്ങിയ ഗ്രീഷ്മകാല വസ്ത്രത്തിൽ തൊടുന്നതും വ്യവസായ രംഗത്തെ ആംഗ്യത്തേക്കാൾ ഉപരി തികച്ചും വ്യക്തിപരമായ ഒരു ചേഷ്ടയായി കണക്കാക്കപ്പെടുന്നു സഹായം അഭ്യത്ഥിക്കുവാൻ മറ്റുള്ളവരെ സ്പർശിക്കുക ആ കുറിപ്പ് ഒന്ന് തരാമോ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഒരു സെക്കൻന്റിന്റെ 140 ന്റെ അത്ര കുറവ് സമയമുള്ള സ്പർശനം മറ്റൊരാൾക്ക് സഹായിക്കാനുള്ള സന്നദ്ധതയെ വർധിപ്പിക്കുന്നു എന്നാണ് ഇതിനെ ആജ്ഞനുവർത്തിത്വ സ്വാധീനം എന്ന് പറയുന്നു അവസാനമായി സ്പർശനം എന്നത് തികച്ചും ആശയവിനിമയ സങ്കേതമായി ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെ ചില പ്രത്യേകം വാക്കുകളിൽ ഊന്നൽ നൽകുവാനായി കേൾവിക്കാരന്റെ കയ്യിൽ തൊടുക കാരണം പറയുന്ന കാര്യങ്ങളിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാനും ആണ് സ്പർശനം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സംസ്കാരം സംഘടനകൾ എന്നിവയിൽ അംഗീകൃതമായ സ്പർശന രീതികൾ അതിന്റെ തെറ്റ് ശരി തുടങ്ങിയവ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക നമ്മുടെ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാപ്റ്റിക്സ് എന്നത് തൊഴിലിടങ്ങളിൽ പ്രധാനമായ ഒന്നാണ് എന്നാണ് തൊഴിൽ ഇടങ്ങളിലെ സ്പർശനം പരിശോധിക്കുക എന്നത് ആശയ വിനിമയത്തെ സംബന്ധിച്ച് അവ്യക്തമായ ഒന്നാണ് സ്പർശനത്തിന്റ വ്യാഖ്യാനത്തിൽ പശ്ചാത്തലം പ്രധാനമാണ് തൊഴിൽ ഇടം എന്നത് സ്പർശനത്തിലൂടെ ഉള്ള സമ്പർക്കം നടക്കുന്നതിൽ ഒരു പ്രത്യേക പരിസരമാണ് കാരണം സ്പർശനം എന്നത് ഒരു പക്ഷെ ചൂഷണമായി തെറ്റിധരിക്കപ്പെട്ടെക്കാം എന്നത് കൊണ്ട് മേലധികാരികൾ തൊഴിലാളികളെ സ്പർശിക്കുന്നതിൽ ഭയപ്പെടുന്നു ഇത്തരം ഭയം തൊഴിലിടങ്ങളിൽ ഉള്ള സ്പർശനത്തെ നിരോധിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുന്നു തൊഴിലിടങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിൽ സ്പർശന രീതികൾ ഉണ്ട് ഉദാഹരണത്തിന് പ്രോത്സാഹന സൂചകമായി പുറത്ത് തട്ടുക ഹസ്തദാനം നടത്തുക എന്നിവ എന്നാൽ ഭീഷണിക്ക് തുല്യമായി മാറുന്ന തരം സ്പർശനം തൊഴിൽ രീതിക്ക് വിരുദ്ധമാണ് എന്നതിലുപരി കുറ്റകരം ആണ് അതേ സമയം ഈ കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നവർ പറയുന്നത് രണ്ട് തരം വ്യാഖ്യാനങ്ങളും ലഭ്യവും ബാധകവുമാണ് എന്നാണ് ഫുള്ളർ അടക്കമുള്ള ആളുകളുടെ പഠനത്തിൽ നിന്നും മനസ്സിലാകുന്നത് തൊഴിലിടങ്ങളിൽ നല്ല ഫലം ലഭിക്കുവാനും സ്പർശനം സഹായിക്കും എന്നാണ് മേലധികാരികളുടെ സ്പർശനം ജോലിക്കാരുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും എന്നത് ഈ പഠനത്തെ പിന്താങ്ങുന്നു ഈ ഗവേഷണത്തിൽ അവർ കണ്ടെത്തിയത് മേലധികരികൾ സ്പർശനത്തെ ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നു എന്നാണ് എത്ര തവണ ആവർത്തിക്കുന്നുവോ അത്രയധികം ഫലപ്രദമായി ഇത് മാറുന്നു തൊഴിലാളികളുടെ വീക്ഷണത്തിൽ ഇത് ഇഷ്ടം വിശ്വാസ്യത വ്യക്തികൾക്ക് ഇടയിലെ നല്ല ബന്ധം മേലധികാരികളുടെ പിന്തുണ എന്നിവയായി കാണപ്പെടുന്നു അതേ സമയം ഇത് തൊഴിലാളികളിൽ എതിരായ പ്രഭാവം ഉണ്ടാക്കുന്നു എന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇക്കാലത്ത് സ്പർശനം എന്നത് മനുഷ്യന്മാരുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നല്ല അതി സാങ്കേതിക രംഗത്തിലേക്കും വ്യാപിച്ച് കിടക്കുന്നു ഹാപ്റ്റിക്സ് എന്നതിന്റെ ഉപയോഗം സാങ്കേതിക മാനസിക യന്ത്ര ശാസ്ത്ര രംഗങ്ങളിലെ സ്പർശന ക്ഷാമം ശാരീരിക അവബോധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു മന്ദയം എ ശ്രീനിവാസന്റെ ഒരു ലേഖനത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉയർന്നു വരുന്ന ഉത്പന്നങ്ങളുടെ രൂപകല്പന വൈദ്യ ശാസ്ത്ര പരിശീലകൻ പുനരധിവാസം എന്നീ രംഗങ്ങളിൽ ഉള്ള നിരവധി അപ്ലിക്കേഷനുകളെ കുറിച്ച് പറയുന്നു മൂന്ന് തരം ഹാപ്റ്റിക്സിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു ഹാപ്റ്റിക്സ് എന്ന വാക്ക് വിവിധ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് കല ചരിത്രം സൌന്ദര്യ ശാസ്ത്രം വാസ്തു വിദ്യ കൂടാതെ അവബോധത്തിന്റെ മനശ്ശാസ്ത്രം മനുഷ്യ വിഭവ ക്രമീകരണം തുടങ്ങിയവ ഇപ്പോൾ വർധിച്ച് വരുന്ന വിവിധ വൈവിദ്യ

ഹ്യൂമൻ ഹാപ്റ്റിക്സ് ആണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളായി നാം പഠിച്ചത് മനുഷ്യ ഇന്ദ്രിയാനുഭവത്തിന്റെ പഠനം സ്പർശനത്തിലൂടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുക എന്നും അ വാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു മഷീൻ ഹാപ്റ്റിക്സ് എന്നത് മനുഷ്യ സ്പർശത്തേ പകരം വെച്ച് കൊണ്ടോ വർധിപ്പിച്ചു കൊണ്ടോ യന്ത്ര സംവിധാനം രൂപകല്പന ചെയ്യുക നിർമ്മിക്കുക ഉപയോഗത്തിൽ കൊണ്ടുവരിക എന്നിവ ആണ് കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് സാങ്കൽപ്പികമായ വസ്തുതകളുടെ സ്പർശനം അനുഭവം എന്നിവയുടെ ഉത്പാദനവും ആവിഷ്ക്കാരവും ആയി ബന്ധപ്പെട്ട കണക്കുകൾ സോഫ്റ്റ്വെയർ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കമ്പ്യൂട്ടർ ഹാപ്റ്റിക്സ് എന്നത് ഈ ചർച്ച തൊഴിൽ സ്ഥാപനങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഉള്ള ഹാപ്റ്റിക്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആയിരുന്നു വ്യാഖ്യാനങ്ങളിൽ ഉള്ള സാംസ്കാരിക വൈവിധ്യം കൂടാതെ സാങ്കേതിക വളർച്ച സാധ്യമാക്കിയ മറ്റ് മാനങ്ങൾ അടുത്ത ഭാഗത്തിൽ ആശയവിനിമയത്തിന്റെ വാഗ്വേതര തലങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന കൈനെസിക്സ് എന്നതിനെ കുറിച്ച് പഠിക്കാം